ലാപ്ലേസ് പോയിസ്സോൻ ഇക്വേഷൻസ് ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കഴിഞ്ഞ ലെക്ച്ചറിൽ നാം എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ നിർവചിച്ചു കൂടാതെ നാം കണ്ടത് E ഡോട്ട് d l എന്നത് മൈനസ് V 2 ന് സമമാണെന്നാണ് നാം ഒന്നിൽ നിന്നും രണ്ടിലേക്ക് ഇന്റഗ്രൽ എഴുതുമ്പോൾ അത് മൈനസ് V 2 പ്ലസ് V 1 ആണ് ഇതിന്റെ ഡിഫറെൻഷ്യൽ രൂപം എന്തെന്നാൽ ഇലക്ട്രിക് ഫീല്ഡിനെ സംബന്ധിച്ച് മൈനസ് ഇലക്ട്രിക്ക് പൊട്ടൻഷ്യലിന്റെ ഗ്രേഡിയന്റ് ആണ് ഒരു യൂണിറ്റ് ചാർജിന്റെ ഇലക്ട്രോ സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ലഭിക്കുന്നതിനായി ഈ ഇക്വേഷനുകൾ എങ്ങിനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കിതിന്റെ എക്സ്പ്രെഷൻ ഇപ്പോൾത്തന്നെ അറിയാം അതായത് എനിക്ക് ഒറിജിനിൽ ഒരു യൂണിറ്റ് ചാർജ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് r അകലെ പൊട്ടൻഷ്യൽ എന്നത് ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 ക്യൂ ബൈ r ആണ് നമുക്ക് ഈ നിർവ്വചനങ്ങൾ ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ഞാൻ ഒരു പോയിന്റ് r ൽ നിന്നും ഇന്റഗ്രൽ E ഡോട്ട് d l r വെക്ടർ മുതൽ ഇൻഫിനിറ്റി വരെ എടുത്താൽ ഇത് ഇൻഫിനിറ്റി യിൽ മൈനസ് V യും ആറി ൽ പ്ലസ് V യും ആയിരിക്കും ഇപ്പോൾ നമുക്കൊരു ചിത്രം ഉണ്ടാക്കാം ഇത് എന്റെ പോയിന്റ് ചാർജ് ആണ് ഞാൻ ഒരു ദൂരം വെക്ടർ r ൽ നിന്നും ഇൻഫിനിറ്റി വരെ പോകുന്നു ഞാൻ ഈ റേഡിയൽ രേഖയിൽക്കൂടി പോകുന്നു നിങ്ങൾക്ക് റേഡിയൽ കോ ഓർഡിനേറ്ററുകൾ സൌകര്യപ്രദമല്ലെങ്കിൽ നമുക്ക് x ആക്സിസിൽ കൂടി നീങ്ങാം അടുത്ത ഒന്ന് രണ്ടു ലെക്ച്ചറുകളിൽ ഞാൻ കോഓർഡി നേറ്റുകളെപ്പറ്റി സംസാരിക്കാം എന്തെന്നാൽ സിലിണ്ടറിക്കൽ സ്ഫറിക്കൽ കോഓർഡിനേറ്റുകളെ പുനരവലോകനം ചെയ്യാൻ വേണ്ടി മാത്രം അപ്പോൾ ഞാൻ ഒരു പോയിന്റ് x ൽ നിന്നും ഇൻഫിനിറ്റി വരെ x ആക്സിസിൽ കൂടി പോകുന്നു അപ്പോൾ ഞാൻ പോയിന്റ് സ് ഇത് കണക്കാക്കുകയാണെങ്കിൽ എല്ലാം സ്ഫറിക്കൽ സിമെട്രിക് ആകയാൽ എല്ലായിടത്തും ഒരേ അകലത്തിൽ പൊട്ടൻഷ്യൽ സമമായിരിക്കും അപ്പോൾ ഞാൻ s മുതൽ ഇൻഫിനിറ്റി വരെ ഇന്റഗ്രൽ E ഡോട്ട് d x കണക്കാക്കുകയാണ് ഇത് ഇൻഫിനിറ്റിയിൽ V പ്ലസ് എക്സിൽ പ്ലസ് V ആയിരിക്കും

ഇത് എക്സിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ E എന്നത് ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 ക്യൂ ബൈ x സ്ക്വയർ മൈനസ് x യൂണിറ്റ് വെക്ടർ ഡോട്ട് d x x യൂണിറ്റ് വെക്ടർ ആയിരിക്കും ഇത് x മുതൽ ഇൻഫിനിറ്റി വരെ ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 ക്യൂ ബൈ x സ്ക്വയർ d x ആയിരിക്കും ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 ക്യൂ ബൈ x ദൂരം r ആയിരിക്കുമ്പോൾ ഇത് ക്യൂ ബൈ r എന്ന് എഴുതാം അത് റേഡിയല്ലായി നീങ്ങുമ്പോഴാണ് എനിക്ക് എല്ലായെപ്പോഴും റേഡിയസ് x ആക്സിസിൽകൂടി എടുക്കാം അപ്പോൾ നാം പഠിച്ചത് എന്തെന്നാൽ ഇൻഫിന്റയിലെ V പ്ലസ് പോയിന്റ് r ലെ V സമം ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 ക്യൂ ബൈ r ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഇത് ഒരു കോൺസ്റ്റന്റ് വരെ മാത്രമേ നിർവചിക്കപ്പെടുന്നുള്ളൂ അതിനാൽ ഇൻഫിനിറ്റിയിലെ V 0 ആകത്തക്ക വിധത്തിൽ ഞാൻ ഒരു റഫറൻസ് പോയിന്റ് എടുക്കുന്നു ഇൻഫിനിറ്റി യിലെ V 0 ആണെന്ന് എടുത്താൽ ഞാൻ V r നെ ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 ക്യൂ ബൈ r എന്ന് നിർവചിക്കുന്നു ഇതിന്റെ അർഥം എന്തെന്നാൽ ഞാൻ ഒരു ചാർജ് എടുത്ത് പോയിന്റ് r മുതൽ ഇൻഫിനിറ്റി വരെ നീക്കിയാൽ എനിക്ക് ഇത്രയും വർക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഈ ഇന്റഗ്രൽ കണക്കാക്കുമ്പോൾ ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാം അപ്പോൾ ഞാൻ അതും കൂടി ചെയ്യാം എനിക്ക് ഒറിജിനിൽ ഒരു ചാർജ് ഉണ്ട് ഞാനതിനെ ഇൻഫിനിറ്റിയിൽ നിന്നും നീക്കി കൊണ്ട് വരുന്നു വീണ്ടും ഞാൻ x സമം ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റ് x വരെ E ഡോട്ട് d l അത് എക്സിലെ മൈനസ് V പ്ലസ് ഇൻഫിനിറ്റിയിലെ V എന്തെന്നാൽ ഒന്നാമത്തെ പോയിന്റ് ഇൻഫിനിറ്റി ആണ് എന്നിരുന്നാലും ഞാൻ d l നെ d x എന്ന് എടുക്കുന്നു എന്തെന്നാൽ ഞാൻ ഇൻഫിനിറ്റി യിൽ നിന്നും x വരെ നീങ്ങുന്നു ഇവയാണ് ഇന്റഗ്രേഷന്റെ ലിമിറ്റുകൾ അതിനാൽ എനിക്ക് മൈനസ് ചിഹ്നം ഇടേണ്ട ആവശ്യമില്ല ഇവിടെ d l സമം മൈനസ് d x x നിങ്ങൾ ഇതിനെ d x x എന്ന് എടുക്കുക ഞാൻ എക്സിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് x ഇൻഫിനിറ്റി മുതൽ x വരെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നതിനാൽ ഈ നീക്കം കൈകാര്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇത് ക്യൂ ബൈ നാലു പൈ എപ്സിലോൺ 0 d x ബൈ x സ്ക്വയർ ഇൻഫിനിറ്റി മുതൽ x വരെ ഇത് ഇൻഫിനിറ്റിയിലെ V 0 ആണെന്ന് എടുത്താൽ എക്സിലെ V ആണ് ഇത് നിങ്ങൾക്ക് ഇതേ ഉത്തരം തന്നെ നൽകുന്നു അപ്പോൾ ഇതാണ് ഒരു പോയിന്റ് ചാർജ് ക്യൂവിന്റെ r അകലത്തിലുള്ള പൊട്ടൻഷ്യൽ അപ്പോൾ നാം ഒരു പോയിന്റ് ചാർജ് ക്യൂ വിന്റെ r അകലത്തിലുള്ള പൊട്ടൻഷ്യൽ കണക്കാക്കി ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷന്റെ കാര്യം എങ്ങിനെയാണ് എനിക്ക് ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷൻ ഉണ്ടെന്ന് വിചാരിക്കുക ഡെന്സിറ്റി റോ r പ്രൈം ആണ് നാം ഇലക്ട്രിക്ക് ഫീൽഡിന്റെ കാര്യത്തിൽ കണ്ടത് പോലെ ഇതും സൂപ്പർ പൊസിഷൻ തത്വം പിന്തുടരുന്നു അതിനാൽ ഞാൻ ഇലക്ട്രിക്ക് ഫീൽഡിലെ വർക്ക് കണക്കാക്കുന്നു അതും സൂപർ ഇമ്പോസ് ചെയ്യപ്പെടാം അപ്പോൾ പോയിന്റ് ആറിലെ പൊട്ടൻഷ്യൽ ഇവിടെയുള്ള ഒരു ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ ചുറ്റുപാടുമുള്ള മറ്റു ചാർജുകളിലെ പൊട്ടൻഷ്യലുകളുമായി ചേർന്നത് ആണ് അതിനാൽ ഇത് ഇങ്ങനെ എഴുതാം ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 ഇന്റഗ്രൽ റോ r പ്രൈം ബൈ r മൈനസ് r പ്രൈം d r പ്രൈം ഇത് d ആണ് ഞാൻ ഇത് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ വോളിയം ഇന്റഗ്രൽ d V പ്രൈം ആണ് ഈ ഫോർമുല എന്താണ് ഇത് ലഭിക്കുന്നതിനുള്ള കണ്ടീഷൻ ഇൻഫിനിറ്റി യിലെ V 0 ആണ് അപ്പോളിത് ഫ്രീ സ്പേസിൽ ആണ് ഫ്രീ സ്പേസിൽ എനിക്കൊരു ചാർജ് ഡിസ്ട്രിബ്യുഷൻ ഉണ്ടെങ്കിൽ ചാർജ് ഡെന്സിറ്റി റോ r പ്രൈം ആണെങ്കിൽ അപ്പോൾ പൊട്ടൻഷ്യൽ കിട്ടുന്നത് ഈ ഫോർമുല മൂലമാണ് V r സമം ഒന്ന് ബൈ നാല് പൈ എപ്സിലോൺ 0 ഇന്റഗ്രൽ റോ r പ്രൈം ബൈ r മൈനസ് r പ്രൈം d V പ്രൈം ഇത് ഇലക്ട്രിക്ക് ഫീൽഡിന് ഇതുപോലെയുള്ള ഫോർമുലയെക്കാൾ ലളിതമാണെന്നത് ശ്രദ്ധിക്കുക അതിനിവിടെ ഒരു വെക്ടർ ഉണ്ടായിരുന്നു വെക്റ്ററുകൾ കൂട്ടുന്നത് അല്ലെങ്കിൽ മൂന്നു ഘടകങ്ങൾ കണക്കാക്കുന്നത് ഒരു അളവ് മാത്രം കണക്കാക്കുന്നതിനേക്കാൾ വളരെ ശ്രമകരമാണ് അതിനാൽ നമുക്ക് ഇലക്ട്രിക്ക് ഫീല്ഡിനെക്കാൾ പൊട്ടൻഷ്യൽ കൊണ്ട് ചെയ്യുന്നതാണ് കൂടുതൽ സ്വീകാര്യം ഈ ഫോർമുല ഫ്രീ സ്പേസിൽ ആണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാൽ നാം വീണ്ടും നേരത്തെ എടുത്തത് പോലെയുള്ള ഒരു സാഹചര്യത്തെ പരിഗണിക്കുന്നു എനിക്ക് ഒരു ലോഹ ഗോളം ഉണ്ടെങ്കിൽ അത് ഞാൻ ഗ്രൌണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൌണ്ട് ചെയ്യുക എന്നതിന്റെ അർഥം പൊട്ടൻഷ്യൽ 0 ആക്കുക എന്നാണ് അപ്പോൾ ഞാൻ ഒരു ചാർജ് ഇതിന്റെ സർഫേസിന് അടുത്തോ അല്ലെങ്കിൽ കേന്ദ്രത്തിലോ വയ്ക്കുന്നു ഞാൻ നേരത്തെ എഴുതിയത് V r സമം ക്യൂ ബൈ നാല് പൈ എപ്സിലോൺ 0 ഗുണം ഒന്ന് ബൈ r ഇത് ശരിയല്ല എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് റേഡിയസ് r സമം ഗോളത്തിന്റെ റേഡിയസ് R ൽ 0 നൽകുകില്ല നിങ്ങൾക്കിത് നിർവചിക്കാവുന്ന ഒരു വഴി V r സമം ക്യൂ ബൈ നാല് പൈ എപ്സിലോൺ 0 ഗുണം ഒന്ന് ബൈ r മൈനസ് ഒന്ന് ബൈ R എന്നാണ് ഇത് നന്നായിരിക്കും പക്ഷെ നാം മറ്റൊരു ജോമെട്രി എടുത്താൽ എങ്ങിനെയിരിക്കും ഞാൻ ഒരു ബോക്സ് എടുക്കുന്നു എന്ന് വിചാരിക്കുക എല്ലാ വശങ്ങളും 0 പൊട്ടൻഷ്യൽ ആക്കുക ഇപ്പോൾ ഒരു ചാർജ് ഉള്ളിൽ വയ്ക്കുക പൊട്ടൻഷ്യൽ എന്തായിരിക്കും അത് ഉത്തരം നല്കാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് അതിനാൽ ഇത് വികസിപ്പിക്കുകയാണ് വേണ്ടത് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നതിനായി നമുക്ക് V r നായി ഒരു ഡിഫറെൻഷ്യൽ ഇക്വേഷൻ വികസിപ്പിച്ച് അത് ഉചിതമായ ബൌണ്ടറി കണ്ടിഷനുകളാൽ സോൾവ് ചെയ്യേണ്ടതായി വരും അത് നമുക്ക് ഉത്തരം നൽകും എനിക്ക് ഈ ഡിഫറെൻഷ്യൽ ഇക്വേഷൻ അറിയാമെന്ന് വയ്ക്കുക അപ്പോൾ ഞാനത് ബൌണ്ടറി കണ്ടിഷനുകളാൽ സോൾവ് ചെയ്ത് ഉത്തരം കണ്ടു പിടിക്കും എനിക്ക് ഈ ഉത്തരം അദ്വിതീയമാണ് എന്ന് തെളിയിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് V ക്കുള്ള ഈ ഡിഫറെൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് E r സമം മൈനസ് ഗ്രേഡ് V എന്നറിയാം നമുക്ക് ഒരു പോയിന്റിലെ ഡൈവേർജെൻസ് E എന്നത് അവിടത്തെ ചാർജ് ഡെന്സിറ്റി ബൈ എപ്സിലോൺ 0 ആണ് എന്നും അറിയാം കേൾ E എന്നത് 0 ആണ് പക്ഷെ ഈ രണ്ടു ഇക്വേഷനുകളും ഒരേ സംഗതിയാണ് എന്തെന്നാൽ ഇതിൽ നിന്നും നമുക്ക് പൊട്ടൻഷ്യലും ഗ്രേഡിയന്റിന്റെ കെൾ 0 അണെന്നതും നിർവചിക്കാം പിന്നെയുള്ള ഒരു ഇക്വേഷൻ ഇതാണ് ഇപ്പോൾ നാം V യുടെ ഫോർമുല ഇവിടെ ഇടുന്നു ഇത് റോ r ബൈ എപ്സിലോൺ 0 ആകുന്നു ഇതെനിക്ക് ഞാൻ ഇങ്ങനെ എഴുതുന്നു ഡെൽ സ്ക്വയർ മൈനസ് V ഇത് റോ r ബൈ എപ്സിലോൺ 0 ക്ക് തുല്യമാണ് നമുക്കിപ്പോൾ ഡെൽ സ്ക്വയർ എന്നാൽ എന്താണെന്ന് നോക്കാം ഡെൽ ഡോട്ട് ഡെൽ V ഇവിടെ ഒരു മൈനസ് ചിഹ്നത്തോട് കൂടി എന്നാൽ മൈനസ് ചിഹ്നത്തെ പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല x d ബൈ d x പ്ലസ് y d ബൈ d y പ്ലസ് z d ബൈ d z x d V ബൈ d x പ്ലസ് y d V ബൈ d y പ്ലസ് z d V ബൈ d z നുമേൽ പ്രയോഗിക്കുന്നത് ആണ് ഇപ്പോളിതാ ഒരു സ്കാലാർ ഫങ്ഷൻ ആയി മാറുന്നു x ഡോട്ട് x എനിക്ക് 1 നൽകുന്നു x ഡോട്ട് y 0 നൽകുന്നു അപ്പോൾ ഉത്തരം V യുടെ സെക്കന്റ് ഡെറിവേറ്റീവ് x അടിസ്ഥാനമാക്കി പ്ലസ് V യുടെ സെക്കന്റ് ഡെറിവേറ്റീവ് y അടിസ്ഥാനമാക്കി പ്ലസ് V യുടെ സെക്കന്റ് ഡെറിവേറ്റീവ് z അടിസ്ഥാനമാക്കി ഇത് V യുടെ ലാപ്ലാഷ്യൻ എന്നറിയപ്പെടുന്നു അപ്പോൾ ഈ ഡെൽ സ്ക്വയർ ടേം ലാപ്ലാഷ്യൻ ആണ് അതിനാൽ ഈ ഇക്വേഷൻ V യുടെ ഡിഫറെൻഷ്യൽ ഇക്വേഷൻ ഡെൽ സ്ക്വയർ V സമം റോ r ബൈ എപ്സിലോൺ 0 മുൻപിൽ ഒരു മൈനസ് ചിഹ്നത്തോട് കൂടി ഇത് പോയിസ്സോൻ ഇക്വേഷൻ എന്നറിയപ്പെടുന്നു അപ്പോൾ എനിക്ക് ഒരു ബോക്സിനുള്ളിലോ മറ്റേതെങ്കില് ക്ലോസ്ഡ് വോളിയു മിനുള്ളിലോ ഒരു ചാർജ് ഡെന്സിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഈ ഇക്വേഷൻ ഒരു ബൌണ്ടറി കണ്ടിഷനോട് കൂടി സോൾവ് ചെയ്താൽ എനിക്ക് V യുടെ ഉത്തരം ലഭിക്കും മറിച്ച് ഇങ്ങിനെയും സംഭവിക്കാം ഞാൻ ഈ ബോക്സ് എടുത്ത് ഈ വശത്തു ഏതെങ്കിലും പൊട്ടൻഷ്യൽ V നൽകുന്നു മറ്റെല്ലാ വശങ്ങളിലും പൊട്ടൻഷ്യൽ 0 നൽകുന്നു ഇപ്പോഴും ഉള്ളിൽ ഇലക്ട്രിക്ക് ഫീൽഡ് ഉണ്ടാകും എന്തെന്നാൽ ഈ രേഖയിൽക്കൂടി ഇലക്ട്രിക്ക് ഫീൽഡ് പുറത്തു വരും ഉള്ളിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും ഞാൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഉള്ളിൽ ചാർജ് ഡെന്സിറ്റി ഇല്ല ഡെൽ സ്ക്വയർ V 0 ആണ് ഉചിതമായ ബൌണ്ടറി കണ്ടിഷനുകളോടുകൂടി ഇത് ലാപ്ലേസ് ഇക്വേഷൻ എന്നറിയപ്പെടുന്നു അപ്പോൾ എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ചാർജ് ഡെന്സിറ്റി ഉണ്ടെങ്കിൽ പോയിസ്സോൻ ഇക്വേഷൻ സാധൂകരിക്കുന്നു അല്ലെങ്കിൽ ലാപ്ലേസ് ഇക്വേഷൻ സാധൂകരിക്കുന്നൂവോ r 0 ആണെങ്കിൽ ഇത് ഒരു ഇക്വേഷൻ ആയി മാറുന്നു ഇത് ലാപ്ലേസ് ഇക്വേഷൻ ആകുന്നു ഉചിതമായ ബൌണ്ടറി കണ്ടിഷനുകളോട് കൂടി സോൾവ് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നു അപ്പോൾ ഭാവിയിൽ ആർക്കെങ്കിലും V r സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമുള്ള ഇക്വേഷൻ ആകയാൽ സോൾവ് ചെയ്താൽ ഇലക്ട്രിക്ക് ഫീൽഡ് ഇ r എന്നത് മൈനസ് ഗ്രേഡ് V r എന്ന് കിട്ടും ഒരു പക്ഷെ നമുക്കറിയാം നാം V r നു വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ ഈ രണ്ടു V ആറിന്റെയും വ്യത്യാസം എന്താണെന്ന വ്യാഖ്യാനം എന്തെന്നാൽ ഇത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചാർജ് നീക്കുന്നതിനുള്ള വർക്ക് മാത്രമാണ്